മാഗ്നെറ്റോസ്റ്റാറ്റിക്സിന് ഒരു ആമുഖം ബയോട്ട് സാവർട്ട് നിയമം നമ്മൾ ഇതുവരെ ചാർജുകൾ കരണമുണ്ടാവുന്ന ഇലക്ട്രിക്ക് ഫീൽഡു കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വിശദമായി ചർച്ച ചെയ്തത് ഇനി നമ്മൾ ഇതിൽ നിന്നും മാറി മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് നെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനായി മാഗ്നെറ്റിക് ഫീൽഡ് നെകുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഒരു മാഗ്നെറ് അതിനു ചുറ്റും മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നകാര്യം ഇവിടെ വരച്ചിരിക്കുന്ന മാഗ്നെറ്റിനു ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോളും ദക്ഷിണ ധ്രുവം അഥവാ സൌത്ത് പോളും നമുക്ക് അടയാളപ്പെടുത്താം നോർത്ത് പോളിൽ നിന്നും സൌത്ത് പോളിലേക്കുള്ള മാഗ്നെറ്റിക് ഫീൽഡ് ലൈനുകൾ അഥവാ കാന്തിക മണ്ഡല രേഖകൾ വരക്കുന്നത് എങ്ങനെയെന്നും അവ എങ്ങനെയായിരിക്കും എന്നും സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഞാനിവിടെ ഫീൽഡ് ലൈനുകൾ വരച്ചു കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫീൽഡ് ലൈനുകൾ വരക്കുന്നത് ചാർജിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് അഥവാ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രിക്ക് ഫീൽഡ് നമ്മൾ തിരിച്ചറിയുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ഓർമയുണ്ടല്ലോ അതുപോലെ ഒരു മാഗ്നെറ്റിക് കോമ്പസ് ൽ അനുഭവപ്പെടുന്ന ടോർക്ക് ന്റെ അടിസ്ഥാനത്തിലാണ് മാഗ്നെറ്റോസ്റ്റാറ്റിക്സിൽ മാഗ്നെറ്റിക് ഫീൽഡ് തിരിച്ചറിയുന്നത് ഒരു കോമ്പസ് മാഗ്നെറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ സൂചി ഫീൽഡിനനുസരിച്ച് കറങ്ങുന്നു അങ്ങനെയാണ് നമ്മൾ മാഗ്നെറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യം മനസിലാക്കുന്നത് അപ്പോൾ മാഗ്നെറ്റിക് ലൈൻസ് അഥവാ കാന്തിക രേഖകൾ വരക്കാനായി നോർത്ത് പോളിൽ നിന്നും സൌത്ത് പോളിലേക്ക് കോമ്പസ് സൂചിയുടെ ദിശയ്ക്കനുസരിച്ച് ആരോ ഇടുന്നു ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ് ഡൈപോളിന്റെ ഈ മാഗ്നെറ്റിക് ലൈനുകൾ ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ലൈനുകൾക്ക് സമാനമാണ് അതായത് ഇവിടെ നമുക്ക് ഇലക്ട്രിക്ക് ഡൈപോൾ പോലെ തന്നെ മാഗ്നെറ്റിക് ഡൈപോളിനെയും നിർവചിക്കാം മാഗ്നെറ്റിക് ഫീൽഡ് B എന്നെടുക്കുകയാണെങ്കിൽ ഇവിടെ C എന്ന കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുന്ന യൂണിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു m എന്നത് ഡൈപോൾ മോമെന്റ്റ് ആണ് ഇത് ഇലക്ട്രിക്ക് ഡൈപോളിന്റെ ഇക്വേഷനു സമാനമാണ് ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് എന്നാണല്ലോ മാഗ്നെറ്റിക് ഫീൽഡിനെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം കാന്തിക മണ്ഡല രേഖകൾ ഒരു ബിന്ദുവിൽ നിന്ന് ബഹിർഗമിക്കുകയോ ഒരു ബിന്ദുവിലേക്ക് ഒത്തുചേരുകയോ ചെയ്യില്ല ഒരു ചാർജ് q കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ലൈനുകൾ ചാർജിൽ നിന്നും ബഹിർഗമിക്കുന്നതായി കാണാം എന്നാൽ മാഗ്നെറ്റിക് ഫീൽഡ് ലൈനുകൾ എപ്പോഴും സംവൃത വലയങ്ങളായിരിക്കും അതായത് ഏക ചാർജുപോലെ പോലെ സ്വതന്ത്ര ഏക ധ്രുവങ്ങൾ ഉണ്ടാവില്ല ഇതാണ് ഇലക്ട്രിക്ക് ഫീൽഡും മാഗ്നെറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം രണ്ടിന്റെയും സമവാക്യങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും സ്വതന്ത്ര ഏക ധ്രുവങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വലിയ വ്യത്യാസമാണ് ഇതിൽ നിന്നും മനസിലാകുന്ന ഒരു കാര്യം B യുടെ ഡൈവേർജൻസ് എല്ലായ്പ്പോഴും സീറോ ആയിരിക്കുമെന്നുള്ളതാണ് കാരണം ഡൈവേർജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സ് അഥവാ സ്രോതസ്സിനെയാണ് എന്നാൽ ഇവിടെ ഫീൽഡ് ലൈനുകൾ ബഹിർഗമിക്കുകയോ ഒത്തുചേരുകയോ ചെയ്യുന്ന സ്വതന്ത്ര സ്രോതസ്സുകൾ ഇല്ല അതുകൊണ്ടുതന്നെ അതുപോലെ തന്നെ B യുടെ കേൾ എടുത്താൽ എന്താണ് ലഭിക്കുകയെന്നു നോക്കാം ഫീൽഡ് ലൈനുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചില ലൈനുകൾ കൂടിച്ചേരുന്നില്ല എന്ന് അതായത് അതുകൊണ്ട് തന്നെ സ്റ്റോക്സ് stokes theorem തിയറം അനുസരിച്ച് B സീറോ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു മാഗ്നെറ്റിക് ഡൈപോളിന് കാന്തിക ഏകധ്രുവങ്ങൾ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടുതന്നെ മാഗ്നെറ്റിക് ലൈനുകൾ ഓരോന്നും സംവൃത വലയങ്ങൾ ആകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ B Vmag എന്ന് എടുക്കാൻ സാധിക്കില്ല കറന്റ് കാരണം മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നുള്ള ഹാൻസ് ക്രിസ്റ്റ്യൻ ഏഴ്സ്റ്റഡ് ന്റെ കണ്ടുപിടിത്തം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ മാഗ്നെറ്റിക് ഫീൽഡിന്റെ പഠനം തീർത്തും അവിടെ അവസാനിക്കുമായിരുന്നു അപ്പോൾ ഏഴ്സ്റ്റഡ് പരീക്ഷണഫലമായി കണ്ടതെന്താണെന്നുവെച്ചാൽ മാഗ്നെറ്റിക് ഫീൽഡ് കറന്റ് കാരണം ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല ഇതിനുള്ള ഫോർമുലയും നമുക്ക്കണ്ടുപിടിക്കാവുന്നതാണ് ഇവിടെ എനിക്ക് കറന്റ് I ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലകം കൊണ്ടുള്ള ഒരു വലയം അല്ലെങ്കിൽ ഒരു നീണ്ട ചാലകം ഉണ്ടെന്നിരിക്കട്ടെ ഈ നീണ്ട ചാലകത്തിന്റെ രണ്ടറ്റവും ചേർന്ന് ഒരു വലയമാകുന്നുണ്ടെന്നു സങ്കല്പിക്കാം r അകലത്തിലുള്ള ബിന്ദുവിൽ അനുഭവപ്പെടുന്ന ആകെ ഫീൽഡ് ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോയിന്റ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഇവിടെ dl എന്നതിന് പകരം dl′ എന്നാണെടുത്തിരിക്കുന്നത് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ ആദ്യത്തെ ഉദാഹരണം അതായത് വൈദ്യുത വലയം എടുക്കാം ഇവിടെ ഒറിജിനിൽ നിന്നും r അകലത്തിലുള്ള ഒരു ബിന്ദുവിലുള്ള ഫീൽഡ് കാണണമെന്നിരിക്കട്ടെ അതിനായി ഞാൻ കറന്റിന്റെ അതെ ദിശയിൽ dl′ എന്ന അതി സൂക്ഷ്മമായ ഒരു അംശം പരിഗണിക്കാം dl′ ഒറിജിനിൽ നിന്നും r′ എന്ന ദൂരത്തിലാണ് അപ്പോൾ വെക്റ്റർ രീതിയിൽ dl′ ൽ നിന്നും ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ബിന്ദുവിലേക്കുള്ള ദൂരം r r′ ആയിരിക്കും ഇത് ഞാൻ കണ്ടുപിടിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഘടകങ്ങൾ തമ്മിൽ കൂട്ടി ആകെ ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ dl′ എന്നത് പേപ്പറിന്റെ അതെ തലത്തിലാണെന്ന് സങ്കല്പിച്ചാൽ r r′ ൻറെ ദിശ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ dl′ |r r′| എടുത്താൽ പേപ്പറിന്റെ ലംബമായി പേപ്പറിലേക്ക് പ്രവേശിക്കുന്ന ദിശയിലുള്ള വെക്റ്റർ ആണ് ലഭിക്കുന്നത് അതായത് ഈ ദിശയിൽ ഒരു ഫീൽഡ് ഉണ്ടാകുന്നു ഇപ്രകാരം ഈ വലയത്തിലുള്ള ചെറിയ ചെറിയ ഘടകങ്ങൾ കാരണമുള്ള ഫീൽഡ് തമ്മിൽ കൂട്ടിയാൽ ഈ മുഴുവൻ വലയത്തിന്റെയും കൂടിയുള്ള ആകെ മാഗ്നെറ്റിക് ഫീൽഡ് ലഭിക്കും ഇതാണ് ബയോട്ട് സാവർട്ട് നിയമം ഈ നിയമത്തെ കുറിച്ച് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം ഈ നിയമം സ്ഥിര വൈദ്യുത പ്രവാഹത്തിന് മാത്രം ബാധകമായതാണ് എന്നതാണ് സ്ഥിര വൈദ്യുതി എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് സമയത്തിനനുസരിച്ച് മാറാത്തത് എന്നാണ് കറന്റ് മാറുകയാണെങ്കിൽ ഇതിനോടുകൂടെ പുതിയ ചില ഘടകങ്ങൾ കൂടെ ചേർക്കേണ്ടി വരും അത് നമുക്ക് പിന്നീട് കൂടുതലായി ചർച്ച ചെയ്യാം ഇപ്പോൾ തല്ക്കാലം നമ്മൾ സ്ഥിര വൈദ്യുതി കാരണമുള്ള മാഗ്നെറ്റിക് ഫീൽഡ് കാണാനുള്ള ഈ ഫോർമുല എടുക്കാം മാഗ്നെറ്റിക് ഫീൽഡിന്റെ വിവിധ പ്രത്യേകതകളെയും സ്വഭാവത്തെയും മനസിലാക്കാൻ ഈ ഫോർമുല ഉതകുമെന്നത് കൊണ്ടുതന്നെ നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടത്താൻ സാധിച്ചു ഇത് മാഗ്നെറ്റിക് ഫീൽഡിനെക്കുറിച്ചുള്ള പഠനത്തിന്റെ പാതയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു നമുക്ക് ബയോട്ട് സവാർട്ട് നിയമം ചില ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കാം ഒന്നാമത്തെ ഉദാഹരണമായി നമുക്ക് ഒരു നീണ്ട വയർ എടുക്കാം ഇതിന്റെ രണ്ടറ്റവും എവിടെയെങ്കിലും കൂടിച്ചേരുന്നുണ്ടാകാം അത് നമുക്കിവിടെ വിഷയമല്ല നമുക്ക് ഈ വയറിൽ നിന്നും x അകലത്തിൽ സ്ഥിതിചെയ്യുന്ന ഒരു ബിന്ദുവിലുണ്ടാകുന്ന ഫീൽഡ് കാണുകയാണ് വേണ്ടത് ഈ ദിശ X ആക്സിസ്സായും വയറിന്റെ ദിശ Y ആക്സിസ്സായും എടുക്കാം അപ്പോൾ Y ആക്സിസിൽ നിന്നും x അകലത്തിലുള്ള ഈ ബിന്ദുവിലുള്ള ഫീൽഡ് കാണണം ഇത് നമുക്ക് XY തലമായെടുക്കാം Y ദിശയിലുള്ള ഈ വയറിൽ ഒറിജിനിൽ നിന്നും y ദൂരത്തിൽ അതി സൂക്ഷ്മ അംശം dl′ പരിഗണിക്കാം നമ്മൾ ഫീൽഡ് കാണാൻ ഉദ്ദേശിക്കുന്ന ബിന്ദു Y ആക്സിസിൽ നിന്നും x ദൂരത്തിലും dl′ ഒറിജിനിൽ നിന്നും y ദൂരത്തിലുമായതിനാൽ dl′ ബിന്ദുവിൽ നിന്നും x2 y2 ദൂരത്തിലായിരിക്കും അപ്പോൾ x ദൂരത്തിലുള്ള ബിന്ദുവിൽ അനുഭവപ്പെടുന്ന ഫീൽഡ് ഇവിടെ I കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ പുറത്തേക്കെടുത്തിരിക്കുന്നു dl′ എന്നത് Y ദിശയിലുള്ള dy യും r എന്നത് X ദിശയിൽ ബിന്ദുവിലേക്കുള്ള ദൂരം x ഉം r′ എന്നത് Y ദിശയിലുള്ള y യും ആണ് ഇവിടെയും വേണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വേരിയബിളിന് 'പ്രൈം' എന്ന് അടയാളപ്പെടുത്താം അതായത് പ്രൈം അടയാളപ്പെടുത്തിയവ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള വേരിയബിളും പ്രൈം ഇല്ലാത്തവ നമുക്ക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളവയുമാണ് ഈ ഇക്വേഷൻ ∞ തൊട്ട് ∞ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ എന്നാൽ yx z ഉം yy 0 ഉം ആണ് അപ്പോൾ ഇതിൽ dy ′ x tan എന്ന് സബ്സ്റ്റിട്യൂട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ അതായത് അതിനർത്ഥം ഫീൽഡിന്റെ ദിശ പേപ്പറിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരിക്കും xy പേപ്പറിൽ നിന്നും പുറത്തേക്കും yx പേപ്പറിന്റെ ഉള്ളിലേക്കും ആയിരിക്കും അപ്പോൾ അനന്തമായി നീണ്ടുകിടക്കുന്ന ഈ കമ്പിയുടെ ഈ വശത്ത് ഫീൽഡ് പേപ്പറിലേക്കും മറുവശത്ത് ഫീൽഡ് പേപ്പറിൽ നിന്നും പുറത്തേക്കുമായിരിക്കും ഫീൽഡ് കാണാനുള്ള രണ്ടാമത്തെ ഉദാഹരണമായി നമുക്ക് XY തലത്തിലുള്ള വയർ കൊണ്ടുള്ള ഒരു വലയം എടുക്കാം ഇതിൽ കൂടെ കറന്റ് ഒഴുകുന്നുണ്ട് ഇവിടെ XY ആക്സിസ് വരച്ചിട്ടുണ്ട് ഞാനിവിടെ Z ദിശയിൽ അതായത് വൈദ്യുത വലയത്തിന്റെ അക്ഷത്തിലൂടെ z അകലത്തിലുള്ള ബിന്ദുവിലെ ഫീൽഡ് കാണുകയാണ് ഇതിൽ ദിശയിൽ കറന്റ് ഉണ്ട് അതുകൊണ്ടുതന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം അടുത്തതായി നമ്മൾ വലയത്തിന്റെ രണ്ടുവശത്തുമുള്ള സൂക്ഷ്മ വൈദ്യുത ഘടകങ്ങൾ dl കാരണം z ദൂരത്തിലുള്ള ഫീൽഡ് കാണുകയാണ് നിങ്ങൾക്ക് കാണാം dl r രണ്ടുവശത്തും എടുത്താൽ ഫീൽഡിന്റെ ദിശ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ രണ്ടു ദിശയിലുമായിരിക്കുമെന്ന് കാരണം ഈ വശത്ത് കറന്റിന്റെ ദിശ അതായത് dl ന്റെ ദിശ പേപ്പറിന്റെ ഉള്ളിലേക്കും മറുവശത്ത് പേപ്പറിൽ നിന്നും പുറത്തേക്കുമാണ് അപ്പോൾ ഫീൽഡിന്റെ ദിശ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആയിരിക്കും ഇതിന് ഹൊറിസോണ്ടൽ കംപോണേന്റ് അതായത് Z അക്ഷത്തിനു ലംബമായി ഒരു ഘടകവും വെർട്ടിക്കൽ കംപോണേന്റ് അതായത് Z അക്ഷത്തിലൂടെ ഒരു ഘടകവും ഉണ്ടാകും ഇവയുടെ ഹൊറിസോണ്ടൽ കംപോണേന്റുകൾ തമ്മിൽ റദ്ദു ചെയ്യപ്പെടുന്നു വെർട്ടിക്കൽ കംപോണേന്റുകൾ കൂടി ചേർന്ന് പരിണത ഫീൽഡ് Z ദിശയിലായിരിക്കും അപ്പോൾ Z കംപോണേന്റുകൾ തമ്മിൽ ഇപ്രകാരം കൂട്ടണം അതായത് ഇന്റഗ്രേഷൻ ചെയ്യണം ഈവലയത്തിന്റെ റേഡിയസ് R എന്നും വലയത്തിൽ കൂടിയുള്ള കറന്റ് I എന്നുമിരിക്കട്ടെ അപ്പോൾ നമ്മൾ എടുക്കുന്ന സൂക്ഷ്മ അംശം dl ൽ നിന്നും ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ബിന്ദുവിലേക്ക് വരുന്ന ദൂരം R2 z2 ആയിരിക്കും ഈ വെക്ടർ അഥവാ സദിശവും റേഡിയസും തമ്മിലുള്ള ആംഗിൾ θ എന്നിരിക്കട്ടെ അപ്പോൾ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഈ ആംഗിളും θ ആയിരിക്കും അക്ഷബിന്ദുവിലുള്ള ഫീൽഡ് ലഭിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന സൂക്ഷ്മ അംശങ്ങളുടെ ഫീൽഡിന്റെ വെർട്ടിക്കൽ കംപോണേന്റ് അതായത് Z കംപോണേന്റ് കണ്ട് അവ തമ്മിൽ കൂട്ടണം

വെക്റ്റർ രീതിയിലും നമുക്ക് ഇതേ ദിശതന്നെയാണ് ലഭിക്കുന്നത് ഇതുതന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ചെയ്തു നോക്കാം ഇവിടെ dl′ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ R ϕ ഇവ ഉപയോഗിച്ചെഴുതാം അപ്പോൾ ϕ′ z r′ ഉം ϕ′ r z ഉം ആണ് അപ്പോൾ കാരണം r′ ൽ cosϕ sin ϕ ഇവയുണ്ട് അപ്പോൾ ഇത് നേരത്തെ കിട്ടിയ അതെ ഫോർമുലയാണ് അപ്പോൾ നമ്മൾ ബയോട്ട് സാവർട്ട് നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ ചെയ്തിരിക്കുന്നു ആദ്യത്തെ ഉദാഹരണത്തിൽ ഒരു നീണ്ട വയറിൽ കൂടെയുള്ള കറന്റ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിച്ചു രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഒരു കമ്പി വലയത്തിൽ കൂടിയുള്ള കറന്റ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിച്ചു ഈ പറഞ്ഞ ഫോര്മുലകളെല്ലാം തന്നെ സ്ഥിരവൈദ്യതിയുടെ കാര്യത്തിൽ അതായത് കോൺസ്റ്റന്റ് കറന്റ് ആകുമ്പോൾ മാത്രമേ ശരിയാകുന്നുള്ളൂ എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം